അൽഗോരിതം രൂപകൽപ്പനയും വിശകലനവും സംബന്ധിച്ച് NPTEL MOOC കോഴ്സിലേക്ക് സ്വാഗതം ഈ കോഴ്സിൽ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ ഇവയാണ് നമ്മൾ അൽഗോരിതം പഠിക്കുമ്പോൾ അൽഗോരിതം ശരിയാണെന്നും അത് നമ്മൾ പ്രതീക്ഷിച്ച ജോലി ചെയ്യുന്നുവെന്നും ആണ് ആദ്യം നമ്മെത്തന്നെ ബോധ്യപ്പെടുത്തേണ്ടത് അതിനാൽ അൽഗോരിതംസിന്റെ കൃത്യത തെളിയിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് അൽഗോരിത്തിന്റെ മറ്റൊരു പ്രധാന വശം തീർച്ചയായും അതിന്റെ കാര്യക്ഷമതയാണ് ഇൻപുട്ടിന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി ഓരോ ഇൻപുട്ടുകൾക്കും അൽഗോരിതം എത്ര സമയം എടുക്കും എന്നതാണ് ഇവിടെ നോക്കുന്നത് ഒരേ തരത്തിലുള്ള ഇൻപുട്ടുകളിൽ പ്രവർത്തിക്കുകയും ഒരേ തരത്തിലുള്ള ഔട്ട്പുട്ടുകൾ നൽകുകയും ചെയ്യുന്ന രണ്ട് വ്യത്യസ്ത അൽഗോരിതങ്ങൾ താരതമ്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായി നമുക്ക് ഒരു നൊട്ടേഷൻ ആവശ്യമാണ് വളരെ വലിയ ഇൻപുട്ടുകൾക്ക് ഒരു അൽഗോരിത്തിന്റെ പ്രവർത്തന സമയം അളക്കുന്ന അസിംടോട്ടിക് കോംപ്ലക്സിറ്റി എന്ന ആശയത്തിലൂടെ ഇത് കൈവരിക്കാനാകും കൂടാതെ ചില അൽഗോരിതത്തെ മൃദുവാക്കാനും അവയെ വലിയ ചങ്ക്സ് ആയി ഗ്രൂപ്പുചെയ്യാനും നമ്മൾ ബിഗ് O പോലെയുള്ള ചില നൊട്ടേഷനുകൾ ഉപയോഗിക്കും ഏതൊരു ഡൊമെയ്നിലും പ്രത്യേകിച്ചും അൽഗോരിതത്തിൽ പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു പ്രധാന ഭാഗം പ്രോബ്ല വിശദമായ തലത്തിൽ മോഡലിംഗ് ചെയ്യുക എന്നതാണ് മിക്ക അൽഗോരിതത്തിലും അനുയോജ്യമായ ഒരു മാത്തമറ്റിക്കൽ മോഡൽ കണ്ടെത്തേണ്ടതുണ്ട് ഇവയിലൊന്ന് ഗ്രാഫുകളായിരിക്കും നമ്മുടെ അൽഗോരിതങ്ങളിൽ ഈ മോഡലുകളുടെ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു മാർഗം നമുക്ക് ആവശ്യമാണ് ഇതിനായി നമുക്ക് ഉചിതമായ ഡാറ്റ സ്ട്രക്ടറുകൾ ആവശ്യമാണ് തീർച്ചയായും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനായി അതിനെ കൈകാര്യം ചെയ്യാവുന്ന ചെറിയ പ്രോബ്ലങ്ങളായി നമുക്ക് മാറ്റേണ്ടതുണ്ട് അതിനാൽ ഇനി നമ്മൾ വലിയ പ്രോബ്ലങ്ങൾ എങ്ങിനെ ചെറിയ പ്രോബ്ലങ്ങളായി വിഘടിപ്പിച്ച് സോൾവ് ചെയ്യാമെന്നും അതിനുശേഷം അവ എങ്ങനെ ഒരുമിച്ച് ചേർക്കാമെന്ന് നോക്കുകയും ചെയ്യും കാലക്രമേണ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്നതിനു നിരവധി ജനറിക് ടെക്നിക്കുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സ്ഥിരമായി കാണുന്ന വളരെ സ്റ്റാൻഡേർഡ് പ്രോബ്ലങ്ങളിൽ ഈ ടെക്നിക്കുകൾ എങ്ങനെ പ്രയോഗിക്കാമെന്നതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കും ഇതിൽ ഡിവൈഡ് ആൻഡ് കോൺഗർ എന്ന ടെക്നിക്കിൽനമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ളത്തെ പരസ്പരം ഓവർലാപ്പ് ചെയ്യാത്ത ചെറിയ ഘടകങ്ങളായി പ്രശ്നം വേർതിരിക്കുകയും മൊത്തത്തിലുള്ള പ്രോബ്ലത്തിനു പരിഹാരം കാണുന്നതിന് ഈ സൊല്യൂഷൻസ് സംയോജിപ്പിക്കുകയും ചെയ്യുന്നു ചില സാഹചര്യങ്ങളിൽ പ്രോബ്ലത്തിന്റെ എല്ലാ സാധ്യതകളും നോക്കാതെ പ്രാദേശികമായ അവസ്ഥ നോക്കുകയും അതുപയോഗിച്ചു ഒപ്റ്റിമൽ പാത തിരഞ്ഞെടുക്കുകയും അന്തിമ പരിഹാരത്തിലെത്തുകയും ചെയ്യുവാൻ നമുക്ക് കഴിയും ഇത്തരത്തിലുള്ള ഗ്രീഡി അൽഗോരിതങ്ങൾ ഉണ്ട് അത്തരമൊരു അൽഗോരിതം ശരിയായ വിധത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് എങ്ങനെ തെളിയിക്കണമെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ് ഗ്രീഡി അൽഗോരിതങ്ങൾ മറ്റ് തരത്തിലുള്ള അൽഗോരിതങ്ങളെ അപേക്ഷിച്ച് കാര്യക്ഷമമാണ് ഗ്രീഡി അൽഗോരിതം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ എല്ലാ സാധ്യതകളും പര്യവേക്ഷണം ചെയ്യാനും ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാനുംനമുക്ക് മറ്റു വ്യവസ്ഥാപിത മാർഗങ്ങൾ ആവശ്യമാണ് ഈ പ്രക്രിയയിൽ ചിലപ്പോൾ ഓവർലാപ്പിംഗ് പ്രോബ്ലങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയും പുനർനിർമ്മിച്ച കാര്യങ്ങൾ പൂർണ്ണമായി പാഴാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയും വേണം ഈ ആശയം ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്നറിയപ്പെടുന്നു ഈ കോഴ്സിൽ തിയറിക്കൊപ്പം നിങ്ങൾക്ക് ചില പ്രോഗ്രാമിംഗ് അസൈൻമെന്റുകളും ഉണ്ടാകും പ്രോഗ്രാമിംഗിൽ നിങ്ങൾക്കെല്ലാവർക്കും കുറച്ച് മുന്നറിവുണ്ടെന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് C അല്ലെങ്കിൽ C അല്ലെങ്കിൽ java എന്നിവയിൽ ഏത് വേണമെങ്കിലും ആവാം പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ ഈ കോഴ്സിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ചില അടിസ്ഥാന അൽഗോരിതങ്ങൾ നടപ്പിലാക്കാനും പ്രോഗ്രാമുകൾ സ്റ്റാൻഡേർഡ് ആയി ചെയ്യാനും കഴിയണം ഇത് ചെയ്യുന്നതിന് ഈ കോഴ്സിൽ ചില പുതിയ ഡാറ്റാ സ്ട്രക്ച്ചറുകൾ നമ്മൾ തീർച്ചയായും പഠിക്കും എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ അറേകളും ലിസ്റ്റുകളും സ്റ്റാക്കുകളും ക്യൂകളും പോലുള്ള അടിസ്ഥാന ആശയങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും സ്റ്റാക്കുകളിലേക്കും ക്യൂകളിലേക്കും വരുമ്പോൾ അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് കുറച്ച് വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങൾ ശ്രമിക്കും എന്നാൽ നിങ്ങൾ മുമ്പ് അവ കണ്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ കോഴ്സിൽ പഠിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വിഷയങ്ങളുടെ ഏകദേശ പട്ടിക ഇതാ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയ ശേഷം നമ്മൾ അൽഗോരിതങ്ങളുടെ കാര്യക്ഷമത അളക്കുന്നതിനും അൽഗോരിതം എളുപ്പത്തിൽ താരതമ്യം ചെയ്യുന്നതിനുമുള്ള മാർഗ്ഗമായ അസിംപ്റ്റോട്ടിക് കോംപ്ലക്സിറ്റിയെപ്പറ്റി പഠിക്കും അതിനു ശേഷം അറേകൾക്കായി നമ്മൾക്കുള്ള ഏറ്റവും അടിസ്ഥാന പ്രോബ്ലമായ സെർച്ചിങ്ങിലേക് നമ്മൾ നീങ്ങും ഫലപ്രദമായി സേർച്ച് ചെയ്യുവാൻ കഴിയുന്ന തരത്തിൽ എലെമെന്റുകൾ ക്രമീകരിക്കുന്നതിന് അറേ സോർട് ചെയ്ത സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കും നമുക് ഇപ്പോൾ സെർച്ചിങ്ങും സോർട്ടിങ്ങും നോക്കാം ബൈനറി സെർച്ചിങ്ങും ഒപ്പം സോർട്ടിങ്ങിന്റെ വ്യത്യസ്ത രീതികളും നമ്മൾ നോക്കും അവയിൽ ചിലത് കൂടുതൽ പ്രാഥമികവും അവബോധജന്യവുമായ സെലക്ഷൻ സോർട് ഇൻസെർഷൻ സോർട് എന്നിവപോലുള്ളതാണു എന്നാൽ അവ കാര്യക്ഷമതയുടെ കാര്യത്തിൽ മികച്ചവയല്ല അതിനാൽ ക്വിക്ക് സോർട് മെർജ് സോർട് പോലുള്ള കൂടുതൽ കാര്യക്ഷമമായ അൽഗോരിതങ്ങൾ നമ്മൾ പരിശോധിക്കും സെർച്ചിങ്ങും സോർട്ടിങ്ങും പഠിച്ചതിനു ശേഷം നമ്മൾ ഗ്രാഫുകളിലേക്കും ഗ്രാഫ് അൽഗോരിതങ്ങളിലേക്കും പോകും ചിലതരം പ്രോബ്ലങ്ങൾ മാതൃകയാക്കാൻ ഗ്രാഫുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ കാണും ഒരു ഗ്രാഫിനെ എങ്ങനെ പ്രതിനിധീകരിക്കണമെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് നിങ്ങള് എങ്ങനെ അത് ചെയ്യും ഗ്രാഫ് അടിസ്ഥാനപരമായി ഒരു ചിത്രമാണ് അതിനാൽ ഒരു അൽഗോരിതം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒന്നിലേക്ക് ഈ ചിത്രം എങ്ങനെ മറ്റും അതിനു ശേഷം ഗ്രാഫുകളിലെ സ്റ്റാൻഡേർഡ് പ്രോബ്ലങ്ങൾ നമ്മൾ നോക്കും ചില പ്രത്യേക പ്രോബ്ലങ്ങൾ മോഡലിംഗ് ചെയ്യുന്നതിന് വളരെ ഉപയോഗപ്രദമായ ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫുകൾ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക ക്ലാസ് ഗ്രാഫുകൾ നമ്മൾ പരിശോധിക്കും തുടർന്ന് നമ്മൾ ഷോർട്ടസ്റ് പാത്ത് സ്പാനിങ് ട്രീ ഉൾപ്പെടെ ഗ്രാഫുകളുമായി ബന്ധപ്പെട്ട മറ്റു പ്രോബ്ലങ്ങൾ നോക്കും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പല പ്രോബ്ലങ്ങളിൽ പ്രയോഗിക്കുന്ന ചില അടിസ്ഥാന അൽഗോരിതം ഡിസൈൻ ടെക്നിക്കുകൾ ഉണ്ട് അവയിൽ ഡിവൈഡ് ആൻഡ് കോൺകർ ഗ്രീഡി ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്നിവ നമ്മൾ പരിശോധിക്കും ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന ഡാറ്റാ സ്ട്രക്ച്ചറുകകളിൽ പ്രയോറിറ്റി ക്യൂകളുണ്ട് അവ പലപ്പോഴും ഹീപ്പ് ഉപയോഗിച്ചാണ് ഇമ്പ്ലിമെൻറ് ചെയ്യുന്നത് ബൈനറി സെർച്ച് ട്രീകൾ വിവരങ്ങൾ ക്രമത്തിൽ ക്രമീകരിക്കുകയും ഡൈനമിക്കായി അതെ രീതിയിൽ നില നിർത്തുകയും ചെയ്യുവാൻ ഉപയോഗിക്കുന്നു ഒരു സെറ്റിന്റെ വിഭജനം സബ്സെറ്റുകളുടെ ഡിജോയിറ്റ് ശേഖരമായി നിലനിർത്തുന്നതിന് ഉപയോഗപ്രദമായ ഡാറ്റ സ്ട്രക്ച്ചറുകളും യൂണിയൻ ഫൈൻഡ് അൽഗോരിതവും നമ്മൾ നോക്കും അവസാനമായി എത്ര സമയം ശേഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നമ്മൾ വിവിധ വിഷയങ്ങൾ നോക്കും എല്ലാ അൽഗോരിതങ്ങളും കാര്യക്ഷമമായ ഒരു പരിഹാരത്തെ അംഗീകരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അതിനാൽ ഇൻട്രാക്റ്റബിൾ ആയതും വിഷമകരമായതും ഈ അവസ്ഥ അജ്ഞാതമായ മറ്റ് ചില പ്രോബ്ലങ്ങളുമാണ് നമ്മൾ പിന്നീട് കാണുന്നത് എട്ട് ആഴ്ചത്തെ ഒരു കോഴ്സാണിത് താൽക്കാലിക ഷെഡ്യൂൾ ഇപ്രകാരമാണ് ആദ്യ ആഴ്ചയിൽ നമ്മൾ പ്രചോദനകരമായ ചില ഉദാഹരണങ്ങളും ചില അസിംപോട്ടിക് നൊട്ടേഷനുകളും പരിശോധിക്കുകയും അവ ഉൾക്കൊള്ളുന്ന ചില പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്യും രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ സെർച്ചിങ്ങിലിലേക്കും സോർട്ടിങ്ങിലേക്കും നീങ്ങും മൂന്നാം ആഴ്ചയിൽ നമ്മൾ ഗ്രാഫുകളും അടിസ്ഥാന ഗ്രാഫ് അൽഗോരിതങ്ങൾ പഠിക്കും തുടർന്ന് ഡിജോയിറ്റ് സെറ്റ് ഡാറ്റാ സ്ട്രക്ചറുകൾ അവതരിപ്പിക്കും നമ്മൾ ഇതിനകം കണ്ടതാണെങ്കിലും ഡിവൈഡ് ആൻഡ് കോൺകർ അല്ഗോതിതം വീണ്ടും നോക്കും തുടർന്ന് നമ്മൾ ഹീപ്പ് അവതരിപ്പിക്കും ആറാമത്തെ ആഴ്ചയിൽ നമ്മൾ സെർച് ട്രീയും ഗ്രീഡി അൽഗോരിതത്തിന്റെ ചില ഉദാഹരണങ്ങളും അവയുടെ പ്രൂഫുകളും ചെയ്യും ഏഴാമത്തെ ആഴ്ച നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗിനായി നീക്കിവയ്ക്കും അവസാനത്തെ ആഴ്ച നമ്മൾ മറ്റു വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തും ഇപ്പോൾ ഇത് ഒരു ഏകദേശ ഷെഡ്യൂൾ മാത്രമാണ് ഇതിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ഏകദേശം ഇതാണ് കോഴ്സിലെ മെറ്റീരിയൽ കവർ ചെയ്യാൻ നമ്മൾ ആസൂത്രണം ചെയ്ത ഷെഡ്യൂൾ കോഴ്സിന്റെ ആദ്യ ആഴ്ച മുതൽ നിലവിലെ ആഴ്ച ജനുവരി അഞ്ചാം മുതൽ ഒമ്പതാം തീയതി വരെയാണ് ഈ കോഴ്സ് ഫെബ്രുവരി അവസാന വാരം വരെ പോകും ഈ കോഴ്സിനുള്ള മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി നിരന്തരമായ വിലയിരുത്തലുകൾ ഉണ്ടാകും എല്ലാ ആഴ്ചയും ക്വിസുകൾ ഉണ്ടാകും നിങ്ങൾക്ക് എട്ട് ആഴ്ചയിലുടനീളം ഏകദേശം ആറ് പ്രോഗ്രാമിംഗ് അസൈൻമെന്റുകളും ഉണ്ടായിരിക്കും കോഴ്സ് അവസാനിച്ചതിന് ശേഷം ഒരു സർട്ടിഫിക്കേഷൻ പരീക്ഷ ഉണ്ടാകും നിങ്ങൾ ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ക്വിസുകളിലും സർട്ടിഫിക്കേഷൻ പരീക്ഷയിലും നിങ്ങൾ 60 ശതമാനം സ്കോർ ചെയ്യേണ്ടതുണ്ട് കൂടാതെ ആറ് അസൈൻമെന്റുകളിൽ അഞ്ചെണ്ണമെങ്കിലും സമർപ്പിക്കേണ്ടതുണ്ട് അവയിൽ കുറഞ്ഞത് നാലെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്തേ മതിയാവൂ സമയം കാണുക 0827 ഈ കോഴ്സിനായി നമ്മക്ക് രണ്ട് പ്രധാന പാഠപുസ്തകങ്ങൾ ആണുള്ളത് എന്നിരുന്നാലും ഞാൻ പാഠപുസ്തകങ്ങൾ ഒന്നും നേരിട്ട് ഈ കോഴ്സിൽ ഉപയോഗിക്കില്ല എന്നാൽ ഏതെങ്കിലും മെറ്റീരിയലുകൾ നോക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവ ഈ രണ്ട് പുസ്തകങ്ങളിൽ കാണാം ആദ്യ പുസ്തകം ജോൺ ക്ലീൻബെർഗും ഇവാ ടാർഡോസും ചേർന്നെഴുതിയ "അൽഗോരിതം ഡിസൈൻ" എന്നതാണ് സഞ്ജയ് ദാസ് ഗുപ്ത ക്രിസ്റ്റോസ് പപാഡിമിട്രിയോ ഉമേഷ് വസിരാനി എന്നിവർ ചേർന്നെഴുതിയ "അൽഗോരിതംസ്" എന്നതാണ് രണ്ടാമത്തേത് ക്ലീൻബെർഗും ടാർഡോസും എഴുതിയ പുസ്തകം കൂടുതൽ വിശദമായി ആശയങ്ങളും തെളിവുകളും പ്രദിപാദിക്കുന്നതാണ് ഇതിൽ ധാരാളം മികച്ച ഉദാഹരണങ്ങളുണ്ട് ദാസ് ഗുപ്ത പപാഡിമിട്രിയോയും വസിരാനിയും എഴുതിയ പുസ്തകം ഒരു ചെറിയ പുസ്തകമാണ് ഇത് സ്വന്തമായി വായിക്കുന്നത് കൂടുതൽ എളുപ്പവും ആക്സസ് ചെയ്യാവുന്നതുമാണ് എന്നാൽ ധാരാളം വിശദാംശങ്ങൾ ഇതിൽ എക്സർസൈസ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് അതിനാൽ മെറ്റീരിയൽ ശരിക്കും മനസിലാക്കാൻ അധ്യായങ്ങളിൽ അവതരിപ്പിക്കുന്ന മെറ്റീരിയലുകൾക്ക് പുറമെ നിങ്ങൾ എക്സർസൈസുകൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട്